സെൽ സൈക്കിൾ എന്ന ആശയം സെൽ കൾച്ചർ ടെക്നോളജിയുടെ ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യത്തെ മൂന്ന് ക്ലാസ്സുകളിൽ സെൽ കൾച്ചർ ടെക്നോളജി പ്രധാനം ചെയ്യുന്ന അവസരങ്ങളെ പറ്റിയാണ് നമ്മൾ കണ്ടത് അതുകൂടാതെ സെൽ കൾച്ചർ ടെക്നോളജിയെ ഒരു സെൻസറായും ബയോ റിയാക്ടറായും ഉപയോഗിച്ച് പലതരത്തിലുള്ള ബയോമെഡിക്കൽ കോമ്പൌണ്ടുകൾ ഉണ്ടാക്കുന്നത് കണ്ടിരുന്നു അതുകൂടാതെ സെൽ കൾച്ചർ ടെക്നോളജിയുടെ അടിസ്ഥാനവും ഫിലോസഫിയും അറിയേണ്ടത് സ്റ്റം സെൽ ബയോളജിയുടെയും റീജനറേറ്റീവ് മെഡിസിന്റെയും ആദ്യത്തെ ആവശ്യകത ആണ് എന്നും പറഞ്ഞിരുന്നു അതു കൂടാതെ മനുഷ്യരാശിയുടെ സ്വപ്നമായ കൃത്രിമ അവയവത്തിനും ഇത് ആവശ്യമാണ് കൃത്രിമ അവയവം എന്നാൽ ഡയാലിസിസ് ബാഗുകളോ മറ്റെല്ലാ കാര്യങ്ങളും ഉള്ള എക്സ്ട്രാ കോർപോറിയൽ ഉപകരണങ്ങങ്ങളും അല്ലെങ്കിൽ ഹാർട്ട് ശ്വാസകോശ മെഷീനുകളുമല്ല ഇവിടെ ഞാൻ സംസാരിക്കുന്നത് ബയോളജിക്കൽ മെറ്റീരിയലുകളിൽ നിന്നും ഉണ്ടാക്കപ്പെട്ട കിഡ്നിയെ പറ്റിയാണ് അവ യഥാർത്ഥ മനുഷ്യ കിഡ്നിയോട് വളരെയധികം സാമ്യമുള്ളതായിരിക്കും അതുകൂടാതെ ഹൃദയമാണെങ്കിൽ കാർഡിയാക് മയോസൈറ്റുകളിൽ നിന്നും എൻഡോത്തീലിയൽ സെല്ലുകളിൽ നിന്നും ഉണ്ടാക്കപെട്ടവയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സെല്ലുകളുടെ ബയോളജി പറഞ്ഞപ്പോൾ നമ്മൾ അവയുടെ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ആവശ്യകതയെപ്പറ്റിയും പറഞ്ഞിരുന്നു ഇതിലേക്ക് നമുക്ക് പിന്നീട് വരാം പിന്നെ നമ്മൾ നമ്മൾ എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ് പ്രോട്ടീനുകളെ പറ്റി പറഞ്ഞിരുന്നു പുതിയ എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ് കണ്ടെത്തുന്നത്തിനെ പറ്റിയും സംസാരിച്ചിരുന്നു എങ്ങനെയാണ് ക്യാൻസർ സെൽ എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ്സിൽ നിന്നും പുറത്തു കടന്ന് പല സ്ഥലങ്ങളിലും കോളനികൾ ഉണ്ടാകുന്നതെന്നും കണ്ടിരുന്നു അതിനെ പറ്റി സംസാരിച്ചപ്പോൾ നമ്മൾ അധെറിങ് നോൺ അധെറിങ് സെല്ലുകളെ പറ്റി പറഞ്ഞിരുന്നു അവിടെ നമ്മൾ അധെറിങ് സെല്ലുകളെ പറ്റിയാണ് നിർദ്ദിഷ്ടമായി പറഞ്ഞിരുന്നത് ഇതിനും അപ്പുറത്തേക്ക് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം നോൺ അധെറിങ് സെല്ലുകളെ പറ്റി പറയുമ്പോൾ അവ ചിലപ്പോൾ അവയുടെ യാത്ര തുടങ്ങുന്നത് അധെറിങ് പരിസ്ഥിതിയിൽ നിന്നാവാം ഉദാഹരണത്തിന് ബ്ലഡ് സെല്ലുകളെ തന്നെ എടുത്തു നോക്കൂ അത് ഇങ്ങനെയിരിക്കും ഇത് നമ്മുടെ ആദ്യത്തെ ആഴ്ചയിലെ നാലാമത്തെ ക്ലാസ്സാണ് ഈ ക്ലാസിൽ നോൺ അധെറിങ് സെല്ലുകളെ പറ്റിയാണ് പറയുന്നത് അതിനാൽ നിങ്ങൾ RBC അല്ലെങ്കിൽ ചുവന്ന രക്താണുക്കളുടെ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ അത് എറിത്രോസൈറ്റുകൾ എന്നും അറിയപ്പെടുന്നു ഈ എറിത്രോസൈറ്റുകളുടെ ഉത്ഭവം അസ്ഥിമജ്ജയിൽ എവിടെയെങ്കിലും ഉണ്ട് ഇവിടെ നിന്ന് ഈ എറിത്രോസൈറ്റുകൾ തുടക്കത്തിൽ ഹെമറ്റോപോയിറ്റിക് സ്റ്റെം സെല്ലുകളിൽ നിന്ന് വിഭജിക്കുകയും അവ രക്തക്കുഴലുകളിലൂടെ കുടിയേറുകയും ചെയ്യുന്നു അവയ്ക്ക് പരിമിതമായ ആയുസാണുള്ളത് അത് പിന്നീട് നശിക്കുകയും ചെയ്യുന്നു അതിനാൽ ഈ സെല്ലുകളെക്കുറിച്ചുള്ള രസകരമായ ഒരു സവിശേഷതയെണ്ടെന്നാൽ അവ ശരീരത്തിലുടനീളം സഞ്ചരിക്കുന്നുമ്പോഴും ഏത് സമയത്തും ഏതോ ഒരു പോയിന്റിൽ പറ്റിച്ചേർന്ന് ഇരിക്കുന്നുണ്ട് ഈ RBC ഒരു പൊള്ളയായ വസ്തുവാണ് സൈഡ് വ്യൂവിൽ കോൺകേവ് ഡിസ്കിന് സമാനമാണ് അതിൻറെ ഘടന അതിൻറെ എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ് അധെറിങ് സെല്ലിനെ പോലെയല്ല അത് സെല്ലിനെ എവിടെയും സ്ഥാപിക്കുകയില്ല നോൺ അധെറിങ് സെല്ലുകളുടെ കൾച്ചർ ചെയ്യണമെങ്കിൽ നമ്മൾ അവയെ ഒരു പ്രത്യേക ഉപരിതലത്തിലേക്ക് തന്നെ എന്നെ കൊണ്ടു പോകേണ്ടി വരും ഈ പ്രശ്നം വ്യത്യസ്തമാണ് അസ്ഥിമജ്ജയെ അഥവാ ബോൺമാരോയെയെ ഉദാഹരണമായി കാണിച്ചുകൊണ്ട് നമുക്ക് അതിനെ പറ്റി സംസാരിക്കാം മൂന്നാമതായി നമ്മൾ ഓക്സിജനെ പറ്റിയും കാർബൺഡയോക്സൈഡ് ECM അധെറിങ് നോൺ അധെറിങ് സെല്ലുകളെ പറ്റിയും പറഞ്ഞിരുന്നു ഇനി നമുക്ക് സെൽ സൈക്കിളുകളെ പറ്റി സംസാരിക്കാം അതിലേക്ക് പോകുന്നതിനു മുൻപ് ഞാൻ ഓക്സിജനെ പറ്റി പറഞ്ഞ സമയത്ത് വിട്ടുപോയ ഒരു കാര്യം പറയാം നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ വിതരണം ചെയ്യുന്നത് ഹീമോഗ്ലോബിൻ എന്ന മോളിക്യൂൾ ആണ് അത് സങ്കീർണമായ ഒരു ഗ്ലോബിൻ പ്രോട്ടീനും ഹീം കോംപ്ലെക്സും അടങ്ങിയതാണ് ഹീം കോംപ്ലക്സ് മറ്റൊന്നുമല്ല അയൻ കോഡിനേഷൻ കോംപ്ലക്സാണ് അതൊരു പൊര്പഹൈറിൻ റിങ്ങിൽ പെടുന്നതാണ് ഇതെല്ലാം ഗ്ലോബിൻ പ്രോട്ടീനിലാണ് ഇരിക്കുന്നത് ഇതാണ് നിറം നൽകുന്ന ഹീംഎന്ന ഭാഗം പിന്നെ ഇതാണ് ഗ്ലോബിൻ പ്രോട്ടീൻ ഹീമോഗ്ലോബിനാണ് ഓക്സിജൻ വിതരണം ചെയ്യുന്നത് ഹീമോഗ്ലോബിനാണ് RBCയുടെ പ്രധാന ഭാഗം ഇതാണ് യഥാർത്ഥ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഇവിടെ കുറെ രക്തക്കുഴലുകൾ ഉണ്ട് വെയ്നുകളും ആർട്ടറികളുമുണ്ട് അവയെ ബന്ധിപ്പിക്കുന്ന ഇടങ്ങളും ക്യാപില്ലറികളുമുണ്ട് അവ തമ്മിൽ കൈമാറ്റങ്ങളും നടക്കും പിന്നീടവ ചുരുങ്ങിച്ചുരുങ്ങി ഇത്തരത്തിൽ ആവും ഇതിനെ നമുക്ക് ലളിതമായി ഇങ്ങനെ കാണിക്കാം അതായത് ഓക്സിജൻ നിറഞ്ഞ രക്തം അല്ലെങ്കിൽ RBC ടിഷ്യുവിൻറെ അടുത്തേക്ക് വരുന്നു എന്നിട്ടവ ഓക്സിജൻ ടിഷ്യുവിനു നൽകി അവിടെയുള്ള CO2 വെയിനുകൾ വഴി തിരിച്ച് എടുത്തു ഹൃദയത്തിൽ കൊണ്ടു ചെല്ലുന്നു അവിടെനിന്ന് അത് ശ്വാസകോശത്തിലേക്കും ശ്വാസകോശത്തിൽ നിന്ന് പിന്നീട് വീണ്ടും ഓക്സിജൻ എടുക്കപ്പെടുകയും CO2 ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു ഈ ഓക്സിജൻ പിന്നീട് ഹീമോഗ്ലോബിനുമായി ചേരുന്നു ഇപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഈ ടിഷ്യൂകൾ ഓരോന്നും തുടർച്ചയായി ഓക്സിജൻ ഉള്ള അന്തരീക്ഷത്തിലല്ല അതിനാൽ നിങ്ങളുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് ഓക്സിജൻ പ്രൊഫൈലിൽ ഇത്തരത്തിലുള്ള ചാഞ്ചാട്ടം കാണാം കാരണം ഇതൊരു പ്രവാഹമാണ് എപ്പോഴും ഓക്സിജനും കാർബൺഡൈഓക്സൈഡും പുറത്തേക്ക് കൊടുക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ഈ കറുപ്പ് വര ഓക്സിജൻ ആണെന്ന് സങ്കൽപ്പിക്കുക അത് കുറയുമ്പോൾ സ്വാഭാവികമായും കാർബൺഡയോക്സൈഡ് കൂടും ഞാൻ എന്താണ് പറയാൻ ശ്രെമിച്ചതെന്നുവെച്ചാൽ ഓക്സിജനും CO2 ഉം യഥാർത്ഥ ജീവിതത്തിൽ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളൊരു ഡിഷിൽ വളർത്തിയാൽ അതായത് നിങ്ങൾ K എന്ന ഡിഷിൽ സെല്ലുകളെ വളർത്തി എന്ന് വിചാരിക്കുക അവിടെ നമുക്ക് അ ഗ്യാസ് എക്സ്ചേഞ്ച് ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഏതാണ്ട് ഈ ചിത്രത്തിലെ പോലെ ഒരു നിറം ഒരു ഗ്യാസിനെയും മറ്റൊന്ന് മറ്റൊരു ഗ്യാസിനെയും പ്രതിനിധീകരിക്കുന്നു ഇത് യഥാർഥ സാഹചര്യത്തിൽ നിന്നും വ്യത്യസ്തമാണ് പിന്നെ എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കുക അതിനായി നമുക്ക് അടുത്ത ജനറേഷൻ സെൽ കൾച്ചർ ടെക്നോളജിയെ പരിചയപ്പെടാം അവ ശരിക്കും ഈ രക്തക്കുഴലുകളെ പോലെ തന്നെയാണ് ഇവിടെ അവർ മൈക്രോ ഫ്ലൂയിഡിക് സിസ്റ്റമാണ് യഥാർത്ഥ ശാരീരിക അവസ്ഥയെ അനുകരിക്കാനായി ഉപയോഗിക്കുന്നത് അവ സെല്ലുകളുടെ വളർച്ച ഒരു തുടർച്ചയായ പ്രക്രിയയായി അതായത് 24x7 പ്രക്രിയയായി കാണിക്കുന്നു എത്ര കാലം സെല്ലുകൾ ജീവനോടെയുണ്ടോ അത്രയും കാലം ഇത് തുടർച്ചയായ ഒരു പ്രക്രിയയാണ് ഹൃദയം രക്തം പമ്പ് ചെയ്യുന്നു ഓക്സിജൻ നിറഞ്ഞ രക്തം അതാത് ടിഷ്യുകളിൽ കൊണ്ടു ചെന്നെത്തിക്കുന്നു കാർബൺഡയോക്സൈഡ് തിരിച്ചെടുക്കുന്നു ഈ പ്രക്രിയ ആവർത്തിക്കുകയാണ് മൈക്രോ ഫ്ലൂയിഡിക് ചാനലിനെ പറ്റിയും അവയുടെ ഉപയോഗവും അത് എങ്ങനെയെല്ലാമാണ് പുരോഗമിക്കുന്നത് എന്തൊക്കെയാണ് അടുത്ത തലത്തിലുള്ള ടെക്നോളജികൾ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം നോക്കാം ചില തടസങ്ങളുണ്ട് ഇത് അത്ര എളുപ്പവുമല്ല എന്നാൽ അത്തരം സംവിധാനങ്ങൾ കഴിഞ്ഞ 100 വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ ചലനാത്മകമാണ് അതിനാൽ സ്റ്റാറ്റിക് സെൽ കൾച്ചറിൽ നിന്നും ആധുനിക സെൽ കൾച്ചർ ചലനാത്മകമാണ് അത്തരം ചലനാത്മക സെൽ കൾച്ചർ വായിക്കപ്പെടും അവയ്ക്ക് എഞ്ചിനീയറിംഗിനെക്കുറിച്ച് വളരെയധികം ധാരണ ആവശ്യമാണ് എഞ്ചിനീയറിംഗ് മൈക്രോ ഫാബ്രിക്കേഷൻ മൈക്രോ ഫ്ലൂയിഡിക്സ് മാസ് ട്രാൻസ്ഫർ ഡിഫ്യൂഷൻ ഗതാഗത പ്രതിഭാസങ്ങൾ ലിത്തോഗ്രാഫി മറ്റ് അനുബന്ധ സാങ്കേതിക വിദ്യകൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്നിവയെക്കുറിച്ച് ധാരാളം ധാരണകൾ വേണം അതിനാൽ നൂറ് വർഷത്തിനുള്ളിൽ ഇന്നത്തെ പാഠപുസ്തകങ്ങൾ എഴുതുന്ന രീതി മാറും കാരണം നമ്മൾ മറ്റൊരു കാലഘട്ട ത്തിലേക്കാണ് കടക്കുന്നത് പക്ഷേ പതുക്കെ ഞങ്ങൾ മനസ്സിലാക്കുന്നു ഈ അളവിലുള്ള ഒരു സിസ്റ്റം പഠിക്കാൻ കഴിയില്ല സെക്കൻഡഡിൽ അല്ലെങ്കിൽ ഓരോ മിനിറ്റിലും ഇത് പുതിയതാവുകയും അല്ലെങ്കിൽ സ്റ്റാറ്റിക് സിസ്റ്റങ്ങളാൽ അസ്വസ്ഥമാവുകയും ചെയ്യുന്നു ഞാൻ ഇത് വരക്കുമ്പോൾ തന്നെ ഈ മൾട്ടി സിസ്റ്റം ഘടനകൾക്കിടയിൽ എല്ലായ്പ്പോഴും വിവര കൈമാറ്റം നടക്കുന്നു ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് അത് മനസിലാക്കാൻ ഞാൻ ലളിതമായ ഒരു ഉദാഹരണം തരാം നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് രാവിലെ പുറത്തു പോകണമെന്ന് കാരണം U V രശ്മികൾ സഹായകരമാണ് നമ്മുടെ ചർമ്മത്തിൽ അടങ്ങിയിരിക്കുന്ന കൊളസ്ട്രോളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ സ്റ്റിറോയിഡുകളെ UV രശ്മികൾ വിറ്റാമിൻ D യായി പരിവർത്തനം ചെയ്യുന്നു ഈ മാറ്റം സംഭവിക്കാൻ നിങ്ങൾക്ക് അൾട്രാവയലറ്റ് രശ്മികൾ ആവശ്യമാണ് ഇപ്പോൾ അത് സംഭവിച്ചുകഴിഞ്ഞാൽ അവശേഷിക്കുന്നു d നെ കോൾകാൽസിഫെറോൾ എന്ന് പറയുന്നു അവയെ ചർമ്മത്തിൽ നിന്ന് കരളിലേക്ക് കൊണ്ടുപോകുന്നു ഇത് കോൾകാൽസിഫെറോൾ അല്ലെങ്കിൽ വിറ്റാമിൻ ഡി ആണ് ഇതിനെ കരളിലേക്ക് കൊണ്ടുപോകുന്നു ഈ കോൾകാൽസിഫെറോലിനെ ഇടനില അനലോഗായി പരിവർത്തനം ചെയ്യുന്നു ഈ ഇടനില അനലോഗിനെ വൃക്കയിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ ഇത് രൂപാന്തരപ്പെട്ട് ഹോർമോണായ കാൽസിട്രിയോൾ ഉണ്ടാവുന്നു കാൽസിട്രിയോൾ ഹോർമോണാനാണ് അസ്ഥി വഴി കാൽസ്യം ഫോസ്ഫറസ് എന്നിവ ആഗിരണം ചെയ്യുന്നത് അതിനാൽ നിങ്ങൾ ഇവിടെ ചർമ്മം കരൾ വൃക്ക അസ്ഥി എന്നിവ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് കാണാം ഇതാണ് സിസ്റ്റത്തിലെ സങ്കീർണ്ണത അല്ലെങ്കിൽ ഇത്തരം സംവിധാനങ്ങളുടെ സമഗ്രത അതിനാൽ ഭാവിയിലെ സെൽ കൾച്ചർ സാങ്കേതികവിദ്യ വളരെ ചലനാത്മകമായിരിക്കും അതിനാൽ അവിടെയാണ് ഞങ്ങൾ Refer time 2041 നിങ്ങളോട് പറഞ്ഞത് ഭാവിയിൽ ഈ കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ എല്ലാം ബന്ധപ്പെടുത്തി പറയണം അതിന്റെ അർത്ഥമെന്താണ് എന്തുകൊണ്ടാണ് ഈ പ്രത്യേക സെൽ അത്തരമൊരു രീതിയിൽ പ്രവർത്തിക്കുന്നത് നമ്മൾ ഉയർന്ന അവസ്ഥയിലുള്ള ഓക്സിജൻ ടെൻഷൻ നിലനിർത്തുന്നുവെങ്കിൽ ഇത് ഓക്സിഡേറ്റീവ് നാശനഷ്ടം പോലുള്ളവയിലേക്കു നയിച്ചേക്കാം കാരണം ഉയർന്ന ഓക്സിജൻ ടെൻഷൻ എല്ലായ്പ്പോഴും ഫ്രീ റാഡിക്കൽ രൂപീകരണത്തിലേക്ക് നയിക്കുന്നു അതിനാൽ ദീർഘകാലത്തേക്ക് ഓക്സിജൻ ടെൻഷൻ ഉയർന്ന തോതിൽ നിലനിർത്തുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഓക്സിജൻ ടെൻഷൻ വ്യവസ്ഥാപിതമായി നിലനിർത്താനും CO2 ന്റെ കൂടുതൽ ശേഖരണം ഇല്ലെന്ന് ഉറപ്പാക്കാനും സാധിക്കണം ഇത് രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിലേക്ക് നമ്മെ കൊണ്ടുവരുന്നു യഥാർത്ഥ ജീവിതത്തിൽ സംഭവിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി വായുവിൽ നിന്നുള്ള സ്ഥിരമായ CO2 ഓക്സിജൻ സപ്ലൈ സെൽ സൈക്കിൾ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു അതിനാൽ ആദ്യം നമ്മൾ ആരംഭിക്കുന്നത് സെൽ സൈക്കിൾ ആണെന്ന് കരുതുക അതിനാൽ മുമ്പത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത് അധെറിങ് സെല്ലും നോൺ അധെറിങ് സെല്ലുകളും തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയുമെന്നാണ് ഇത് കൂടാതെ സെല്ലുകളെ വിഭജിക്കാത്തതും വിഭജിക്കുന്നതും ആയി രണ്ട് ഗ്രൂപ്പുകളായി തരംതിരിക്കുന്നു വിഭജിക്കാത്ത സെല്ലുകളെ പറ്റി പറയുമ്പോൾ ആദ്യം ഓർമയിൽ വരുന്നത് ന്യൂറോണുകളാണ് ന്യൂറോണുകൾ വിഭജിക്കില്ല ടെർമിനലി ഡിഫറെന്റിയേറ്റഡ് ന്യൂറോൺ പ്രത്യേകിച്ചും അത് എന്തുകൊണ്ടന്നെന്നു പിന്നീട് പറയാം അതുപോലെ വിഭജിക്കാത്ത കാർഡിയോ മയോസൈറ്റുകളുണ്ട് നിങ്ങളുടെ ചർമ്മം മുഴുവൻ ഒരു തുടർച്ചയായ പുനരുജ്ജീവനമാണ് തുടർച്ചയായി വിഭജനം നടക്കുന്നു അത് എപിഡെർമൽ ലെയറിൽ എല്ലാ ഇടത്തും നടക്കുന്നുണ്ട് അപ്പോൾ മുൻ ക്ലാസിൽ ചർച്ച ചെയ്തതുപോലെ ഇത് നമുക്ക് നിയന്ത്രണത്തിലാക്കാൻ കഴിയാതെ വന്നാൽ ക്യാൻസറിലേക്ക് നയിച്ചേക്കാം അതിനാൽ അടുത്തതായി സെൽ ഡിവിഷന്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചും അത് കൾച്ചറിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ചും സംസാരിക്കും അതിനാൽ അടുത്ത ക്ലാസ്സിൽ ഞാൻ സെൽ സൈക്കിൾ ആരംഭിക്കാം